ഫിസിക്കൽ സിന്തസിസ് എന്ന് വിളിക്കപ്പെടുന്ന ചില സാങ്കേതികതകളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഫിസിക്കൽ സിന്തസിസ് എന്ന് പറയുമ്പോൾ ചില നെഗറ്റീവ് സ്ലാക്കുകൾ നിയന്ത്രിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു നെറ്റ്ലിസ്റ്റിൽ ടൈമിംഗ് അനാലിസിസ് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് ചെയ്യുമ്പോൾ ചില നെറ്റ്കൾക്ക് നെഗറ്റീവ് സ്ലാക്കുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയേക്കാം അതിനാൽ ചില തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ ആവശ്യമായ വരവ് സമയം യഥാർത്ഥ വരവ് സമയത്തേക്കാൾ കുറവാണ് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ചില തിരുത്തൽ നടപടികൾ നടത്തേണ്ടതുണ്ട് ഇതാണ് ഫിസിക്കൽ സിന്തസിസ് ഘട്ടങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് അതിനാൽ നമുക്ക് നമ്മുടെ ചർച്ചകൾ ആരംഭിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഫിസിക്കൽ സിന്തസിസ് എന്നത് ടൈമിംഗ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകളുടെ ശേഖരമല്ലാതെ മറ്റൊന്നുമല്ല ഇത് ചെയ്യുന്നതിനുള്ള പ്രധാന ലക്ഷ്യം നെഗറ്റീവ് സ്ലാക്കുകൾ നിയന്ത്രിക്കുക എന്നതാണ് നെഗറ്റീവ് സ്ലാക്കുകൾ പരിശോധിച്ച് ഇല്ലാതാക്കുക അവയെ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കുക ടൈമിംഗ് ബജറ്റ് എന്താണെന്ന് നേരത്തെ നമ്മൾ കണ്ടിരുന്നു അതിനാൽ ഇത് ചില ടൈമിംഗ് ബജറ്റുകൾ സൃഷ്ടിക്കുന്നത് ഉൾക്കൊള്ളുന്നു ഈ ബജറ്റുകളെ അടിസ്ഥാനമാക്കി ഈ ബജറ്റ് എവിടെയെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു സർക്യൂട്ടിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഈ ബജറ്റുകളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടെന്ന് നമ്മൾ കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് ശ്രമിക്കാം ചില തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക ഇപ്പോൾ ഇത്തരത്തിലുള്ള സമയ ലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിന് നമുക്ക് സാധ്യമായ തിരുത്തൽ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനാൽ ഞങ്ങൾ ഇവിടെ ടൈമിംഗ് ബജറ്റുകൾ പറയുമ്പോൾ അവയിൽ ലക്ഷ്യമിടുന്ന ഡിലേയ് ഉൾപ്പെടുന്നു ഒന്നുകിൽ ഒരു മുഴുവൻ പാതയോ അല്ലെങ്കിൽ നെറ്സ്സുകളുടെ ചെറിയ ഭാഗമോ ആണ് ഇത് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ റൂട്ടിംഗ് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പിന്നീട് സമയ തിരുത്തലുകളിൽ ചെയ്യാവുന്നതാണ് അതിനർത്ഥം എല്ലാം ചെയ്തതിനുശേഷം ചില സമയങ്ങൾ തൃപ്തികരമല്ലെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ തിരുത്തൽ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും വിശാലമായി പറഞ്ഞാൽ സമയ സമീപന തിരുത്തലുകൾ 3 സമീപനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം ആദ്യത്തേതിനെ ഗേറ്റ് സൈസിംഗ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് ബഫറിംഗ് എന്ന് വിളിക്കുന്നു അതിൽ നെറ്റ് ലിസ്റ്റിൽ ബഫറുകൾ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു മൂന്നാമത്തേത് നിങ്ങളുടെ നെറ്റ്ലിസ്റ്റ് ഏതെങ്കിലും വിധത്തിൽ പരിഷ്ക്കരിച്ചാണ് ഇതിനെ നെറ്റ്ലിസ്റ്റ് റീ സ്ട്രക്ച്ചറിങ് എന്ന് വിളിക്കുന്നു നമുക്ക് ആദ്യത്തേതിൽ നിന്ന് ആരംഭിക്കാം ഒരു സർക്യൂട്ടിലെ ഡിലേയ് ക്രമീകരിക്കുന്നതിനുള്ള വളരെ ലളിതവും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ സാങ്കേതികതയാണ് ഗേറ്റ് സൈസിംഗ് ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നന്നായി രൂപകൽപ്പന ചെയ്ത സർക്യൂട്ടുകളിൽ ഭൂരിഭാഗവും അവ നിർമ്മിച്ചിരിക്കുന്നത് സെമി കസ്റ്റം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലിയിലാണ് അപ്പോൾ എന്താണ് അടിസ്ഥാന ആശയം നമ്മൾക്കു ഒരു ടെക്നോളജി ലൈബ്രറി ഉണ്ട് അവിടെ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തതും ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഒരു കൂട്ടം സെല്ലുകൾ ഉണ്ട് അവയെല്ലാം ഒരേ ഉയരത്തിലാണ് അവയുടെ വീതി വ്യത്യാസപ്പെടാം അതിനാൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു സെൽ എടുക്കുന്നു ഞാൻ അത് എന്റെ ലേയൌട്ട്ടിൽ വെച്ചു വരികളുടെ അടിസ്ഥാനത്തിൽ ലേയൌട് നന്നായി ക്രമീകരിച്ചിരിക്കുന്നു നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം എനിക്ക് 2 ഇൻപുട്ട് NAND ഗേറ്റ് ആവശ്യമാണെന്ന് പറയാം അതിനാൽ ലൈബ്രറിയിൽ 2 ഇൻപുട്ട് NAND സെൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വാസ്തവത്തിൽ ഒരു സെൽ ഉണ്ട് എന്നാൽ ഒന്നിൽ മാത്രമല്ല അത്തരം 2 ഇൻപുട്ട് NAND ഗേറ്റുകൾ ഉണ്ടാകാം അവിടെ ഗേറ്റുകളുടെ വലുപ്പങ്ങൾ വ്യത്യാസപ്പെടുന്നു അതുകൊണ്ട് ഈ വലിപ്പത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് വിശദീകരിക്കാം ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ഓരോ ലോജിക് ഗേറ്റും അല്ലെങ്കിൽ ഒരു സാധാരണ സെൽ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കേണ്ട ലളിതമായ പ്രവർത്തന ബ്ലോക്കുകളും ഒന്നിലധികം വലുപ്പങ്ങളിൽ ലഭ്യമാണ് എന്നതാണ് ഒരു വലിയ ഗേറ്റിന് ഒരു വലിയ കറന്റ് ഡ്രൈവിംഗ് ശേഷി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് അവർക്ക് വ്യത്യസ്ത ഡ്രൈവ് ശക്തികൾ ഉണ്ടാകുമെന്നാണ് വലിയ ഗേറ്റിന് വലിയ ഡ്രൈവിംഗ് ശേഷി ഉണ്ടായിരിക്കും ചെറിയ കവാടങ്ങൾക്ക് നിലവിലെ ഡ്രൈവിംഗ് ശേഷി കുറവായിരിക്കും അതിനാൽ ഈ ഡ്രൈവ് ശക്തി യഥാർത്ഥത്തിൽ കറന്റ് നിർണ്ണയിക്കുന്നു അത് സ്വിച്ചിംഗ് സമയത്ത് ഗേറ്റിന് ലോഡിന് നൽകാൻ കഴിയും ഇപ്പോൾ ഇത് ഒരു പ്രധാന പോയിന്റാണ് ഒരു ഗേറ്റ് മറ്റേതെങ്കിലും ഗേറ്റ് ഓടിക്കുമ്പോൾ ഗേറ്റ് ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ ലോഡ് കപ്പാസിറ്റൻസുകളെ അഭിമുഖീകരിക്കുന്നു അതിനാൽ ഈ കപ്പാസിറ്റൻസ് ഏത് ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഫാനൌട്ട് എത്ര ഗേറ്റുകൾ ഓടിക്കുന്നു ഓടിക്കുന്ന ഗേറ്റുകളുടെ വലുപ്പം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ വസ്തുത വിശദീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം NAND ഇൻപുട്ട് ചെയ്യുന്നതിനുള്ള ഒരു ലളിതമായ ഉദാഹരണം നോക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു CMOS ലെവൽ 2 ഇൻപുട്ട് NAND ന്റെ ട്രാൻസിസ്റ്റർ ലെവൽ സാക്ഷാത്കാരം കാണിച്ചുതരാം പുൾ ടൌണിൽ നിങ്ങൾക്ക് 2 n തരം ട്രാൻസിസ്റ്ററുകൾ nMOS ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് pMOS ട്രാൻസിസ്റ്ററുകൾ a b എന്നിവയുണ്ട് ഇതാണ് f ഔട്ട്പുട്ട് അതിനാൽ ഇവിടെ ഇത് a ഇത് b ഇത് f ഒരു ട്രാൻസിസ്റ്റർ എത്ര ചെറുതാകുമെന്നതാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കാൻ ശ്രമിക്കുന്ന ചോദ്യം ഇപ്പോൾ നിങ്ങൾ ഒരു ട്രാൻസിസ്റ്റർ നോക്കിയാൽ മുകളിൽ നിന്ന് ഒരു MOS ട്രാൻസിസ്റ്റർ കാണുക ചാനൽ ആയ ഒരു പ്രദേശമുണ്ട് ഇതാണ് ചാനൽ ഒരു വശത്ത് നിങ്ങൾക്ക് ഈ സോഴ്സ് ഉണ്ട് മറുവശത്ത് നിങ്ങൾക്ക് ഡ്രെയ്ൻ അതിനാൽ ഈ ചാനലിൽ കറന്റ് ഒഴുക്കും ഇപ്പോൾ ചോദ്യം ഉയർന്നുവരുന്നു ഇത് സോഴ്സ്ആണ് ഇത് ഡ്രെയ്ൻ വിപരീതമോ ഇതാണ് ചാനൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഈ ചാനലിന്റെ വലുപ്പം എന്താണ് എന്ന ചോദ്യം ഉയരുന്നു ഇപ്പോൾ നിങ്ങൾ സ്വാഭാവിക ഒപ്റ്റിമൈസേഷൻ വീക്ഷണകോണിൽ നിന്ന് കാണുന്നു നമ്മൾ എന്തിനാണ് അനാവശ്യമായി ഒരു ഗേറ്റ് വലുതാക്കുന്നത് ചാനൽ വലുതാക്കുക ഇത് എന്റെ ഉദ്ദേശ്യം നിറവേറ്റുന്നതുപോലെ ചെറുതായി ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഈ ചാനലുകളുടെ വലുപ്പങ്ങൾ നിങ്ങൾ കാണുന്നു അവയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷത വലുപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വളരെ സ്റ്റാൻഡേർഡ് ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നടപടിക്രമമാണ് ഒരു ചാനലിന് കുറഞ്ഞത് 2 ലാംബഡ 2 ലംബഡ ആകാം ഫീച്ചർ ചെയ്ത ഏറ്റവും കുറഞ്ഞ വലുപ്പമാണിത് കൂടാതെ pMOS ട്രാൻസിസ്റ്ററുകൾക്ക് മറ്റൊരു കാര്യമുണ്ട് അവയുടെ ചലനാത്മകത അർത്ഥമാക്കുന്നത് മുഴുവൻ ചലനശേഷിയും അല്പം കുറവാണ് അതായത് nMOS ട്രാൻസിസ്റ്ററുകളിലെ ഇലക്ട്രോണുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദ്വാരങ്ങൾ അല്പം പതുക്കെ നീങ്ങുന്നു ഈ സ്വിച്ചിംഗ് വേഗത താരതമ്യപ്പെടുത്തുന്നതിന് pMOS ട്രാൻസിസ്റ്ററുകൾ അല്പം വലുതാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രാൻസിസ്റ്റർ നിർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാക്കാം 2 ലാംബഡ 4 ലാംഡ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം 2 ലാംഡ ബൈ 4 ലാംഡ നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്ററിന്റെ വലുപ്പം മാറ്റാൻ നിരവധി മാർഗങ്ങളുണ്ട് അതായത് ചാനൽ അതിനാൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ വലുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചാനലിന്റെ വലുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഈ p ടൈപ്പും n ടൈപ്പും എല്ലാം ഒരുപോലെയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു എന്നാൽ ചലനാത്മക പ്രശ്നങ്ങൾ കാരണം യഥാർത്ഥത്തിൽ p ടൈപ്പ് അല്പം വലുതായിരിക്കും അതിനാൽ അടിസ്ഥാന ട്രാൻസിസ്റ്റർ വലുപ്പം 2 ലാംഡ 2 ആണ് ലാംബഡ ഞങ്ങൾ 1 മുതൽ 1 വരെ 1 മുതൽ 1 വരെ 1 മുതൽ 1 വരെ 1 മുതൽ 1 വരെ അതിനാൽ ഇത് 1 എന്നത് 1 നീളവും വീതിയും തുല്യമാണെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഞാൻ ഉണ്ടാക്കുക ചാനൽ വിശാലമാണ് അതിനാൽ ഞാൻ ചാനലിനെ ഇതുപോലെ വിശാലമാക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് സോഴ്സ് ഒരു വശത്താണ് ഡ്രെയ്ൻ മറുവശത്താണ് അതിനാൽ ഇത് വിശാലമായതിനാൽ പ്രതിരോധം കുറവായിരിക്കും അതിനാൽ പ്രതിരോധങ്ങൾ കുറവാണെങ്കിൽ അത് കൂടുതൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഗേറ്റ് വലുതാക്കാൻ കഴിയും അങ്ങനെ വലുപ്പം എന്ന് വിളിക്കുന്നത് 1 എന്നതിന് പകരം 1 1 മുതൽ 1 വരെ എനിക്ക് ഇത് 1 മുതൽ 2 വരെ ഇതുപോലുള്ള ഒന്ന് മാറ്റാൻ കഴിയും ഞാൻ ഗേറ്റുകൾ വിശാലമാക്കുന്നു അതിനാൽ ഞാൻ ഇത് വിശാലമാക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ കറന്റ് ഓടിക്കാൻ കഴിയും അതിനാൽ അടിസ്ഥാന ആശയം ഇതുപോലെയാണ് മറ്റൊരു കാര്യം ഈ ഗേറ്റ് മറ്റ് കവാടങ്ങൾക്ക് സമാനമായി ഡ്രൈവ് ചെയ്യുന്നുവെന്ന് കരുതുക സമാന ഗേറ്റുകൾ meansട്ട്പുട്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് f ആണെന്ന് പറയട്ടെ ഈ എഫ് മറ്റൊരു NAND ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ പോയിന്റ് ഒരു p ടൈപ്പ് ട്രാൻസിസ്റ്ററുമായി ബന്ധിപ്പിക്കും അത് ഒരു n ലേക്ക് ബന്ധിപ്പിക്കും ഇതുപോലുള്ള ട്രാൻസിസ്റ്റർ ടൈപ്പ് ചെയ്യുക അതിനാൽ ഓരോ ട്രാൻസിസ്റ്ററിനും കപ്പാസിറ്റൻസ് സബ്സ്ട്രേറ്റ് ചെയ്യാനുള്ള ഗേറ്റ് വളരെ ഗണ്യമാണ് തത്തുല്യമായ ഒരു സർക്യൂട്ട് ലോഡ് CLന്റെ ശേഷി നയിക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം അതിനാൽ ഈ കപ്പാസിറ്റീവ് ലോഡ് ഫാനൌട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു അത്തരം 2 ഗേറ്റുകൾ ഉണ്ടെങ്കിൽ CL ന്റെ മൂല്യം ഇരട്ടിയാകും കാരണം അത്തരം മറ്റൊരു ജോഡി ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് അതിനാൽ ഈ ഫാനൌട് ലോഡ് കപ്പാസിറ്റൻസ് നിർണ്ണയിക്കുന്നു ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 മുതൽ 1 അല്ലെങ്കിൽ 1 വരെ 0 ആയി മാറുന്നുവെന്ന് പറയുമ്പോൾ അത് 0 ൽ നിന്ന് 1 ആയി മാറുന്നു എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ തുടക്കത്തിൽ ഡിസ്ചാർജ് ചെയ്തു ഔട്ട്പുട്ട് 0 ഇപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നു ഇത് VDD ആണ് ഇത് ഈ പാതയിലൂടെ ചാർജ് ചെയ്യുന്നു ഇപ്പോൾ ഔട്ട്പുട്ട് 1 മുതൽ 0 വരെ പോകുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ അത് ഈ പാതയിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ ഈ ചാർജിംഗ് ഡിസ്ചാർജ് സമയം 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഒന്ന് കപ്പാസിറ്റൻസിന്റെ മൂല്യം വലിയ മൂല്യം പതുക്കെ പതുക്കെയായിരിക്കും ഈ പ്രക്രിയയും ഈ പാതകളിലൂടെയുള്ള പ്രതിരോധവും പ്രതിരോധം കുറയ്ക്കുന്നു വേഗത്തിൽ ചാർജിംഗ് ഡിസ്ചാർജ് അതിനാൽ ഞാൻ ഒരു ഗേറ്റ് വലുതാക്കിയാൽ ഈ ഡിസ്ചാർജിംഗ് വേഗത്തിലാകും അതിനാൽ എന്റെ ഗേറ്റ് ഡിലേയ് കുറവായിരിക്കും അതിനാൽ ഒരു ഗേറ്റിന്റെ വലുപ്പം എന്നതിന്റെ അർത്ഥം ഇതാണ് ഒരു ഗേറ്റ് എങ്ങനെ വലുതാക്കുന്നു എന്നത് അതിന്റെ ഡിലേയ് കുറയ്ക്കും അതിനാൽ ഈ MOS ലെവൽ ഡിസൈനുകൾക്കുള്ളിൽ ഞങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ അറിയാനും അഭിനന്ദിക്കാനും ഇത് മതിയാകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഞാൻ ഒരു ഗേറ്റ് വലുതാക്കുമ്പോൾ അതിനർത്ഥം ഞാൻ എന്റെ ട്രാൻസിസ്റ്ററുകൾ വിശാലമാക്കുന്നു ചാനലുകൾ വിശാലമാക്കുന്നു എന്നാണ് അതിനാൽ എനിക്ക് കൂടുതൽ വൈദ്യുതധാരകൾ ഓടിക്കാൻ കഴിയും അതിനാൽ എന്റെ RC ഡിലേയ് കുറവായിരിക്കും അതിനാൽ ഗേറ്റ് ഡിലേയ് 0 മുതൽ 1 വരെ 1 മുതൽ 0 വരെ ഉയരുന്നതും വീഴുന്ന സമയവും കുറയും കൂടുതൽ ഫാനൌട്ടുകളുടെ എണ്ണം കപ്പാസിറ്റീവ് ലോഡ് കൂടുതലായിരിക്കും എനിക്ക് വലിയ കപ്പാസിറ്ററുകൾ ചാർജ് ചെയ്യേണ്ടതിനാൽ എന്റെ ഡിലേയ് കൂടുതലായിരിക്കും നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് ഒരു ഗേറ്റ് V ഉണ്ടെന്ന് കരുതുക ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗേറ്റുകളുടെ 3 പതിപ്പുകൾ ഉണ്ട് A യുടെ വലുപ്പം ഏറ്റവും ചെറുതാണ് v A യുടെ വലുപ്പം v B യുടെ വലുപ്പത്തേക്കാൾ കുറവാണ് വലുപ്പം v C നേക്കാൾ കുറവാണ് അതിനാൽ ഇത് ഞങ്ങൾ ഇതിനകം പറഞ്ഞ ഒരു കാര്യമാണ് അതിനാൽ ഒരു ഗേറ്റിന് വലിയ വലുപ്പമുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് കുറഞ്ഞ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുമെന്നും അതേ അല്ലെങ്കിൽ കുറഞ്ഞ ഡിലേയ്യോടുകൂടെ ഒരു വലിയ ലോഡ് കപ്പാസിറ്റൻസ് നയിക്കാൻ കഴിയുമെന്നും ഇപ്പോൾ 2 കാര്യങ്ങൾ ഉണ്ട് അതിനാൽ നിങ്ങൾ ഒരു ഗേറ്റ് വലുതാക്കിയാൽ ചിത്രത്തിലേക്ക് വരുന്ന മറ്റൊരു പോയിന്റുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു ഗേറ്റ് വലുതാക്കുകയാണെങ്കിൽ നിങ്ങൾ ചാനലിനെ വലുപ്പത്തിൽ വലുതാക്കുന്നു അതിനാൽ ഗേറ്റിനുള്ളിൽ ഒരു അന്തർലീനമായ കപ്പാസിറ്റൻസും ഉണ്ടാകും അത് ഇവിടെ പ്രാബല്യത്തിൽ വരും അതിനാൽ ഞങ്ങൾ നേരത്തെ ലോഡ് കപ്പാസിറ്റൻസിനെക്കുറിച്ചാണ് സംസാരിച്ചത് മറ്റേതെങ്കിലും ഗേറ്റ് മറ്റൊരു ഗേറ്റ് ഓടിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അതേ ഗേറ്റിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഗേറ്റിനുള്ളിൽ ചാനലിനും ഗ്രൌണ്ടിനുമിടയിൽ മറ്റ് പല പാളികൾക്കും ഇടയിൽ ചില അന്തർലീനമായ കപ്പാസിറ്റൻസ് ഉണ്ടാകാം ലോഡ് കപ്പാസിറ്റൻസ് വലുതായിരിക്കുമ്പോൾ ഈ ആന്തരിക കപ്പാസിറ്റൻസിന് വലിയ പ്രാധാന്യമില്ല അതിനാൽ നിങ്ങൾ ഗേറ്റുകൾ വലുതാക്കുമ്പോൾ നിങ്ങളുടെ ഡിലേയ് കുറയും അതിനാൽ ഈ ബന്ധം നിലനിൽക്കും ആന്തരിക കപ്പാസിറ്റൻസ് ചെറുതും ലോഡ് കപ്പാസിറ്റൻസ് വലുതായിരിക്കുമ്പോഴാണ് ഇത് അതിനാൽ ഡിസ്ചാർജിംഗ് സമയം ചാർജ് ചെയ്യുന്നത് ഇവിടെ പ്രധാന ഡിലേയ് ആയിരിക്കും ലോഡ് കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യുകയും ലോഡ് കപ്പാസിറ്റൻസ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ v A ഏറ്റവും ചെറുതായതിനാൽ v A യുടെ ഈ ഡിലേയ് ഏറ്റവും വലിയ v C ആയിരിക്കും ഏറ്റവും വലിയ ഡിലേയ് ഏറ്റവും ചെറിയ ഡിലേയ് ആയിരിക്കും എന്നാൽ വിപരീതം ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ശ്രദ്ധേയമായ ലോഡ് കപ്പാസിറ്റൻസ് ഇല്ലെന്ന് കരുതുക അത് ചെറുതാണ് അതിനാൽ ഇപ്പോൾ ആന്തരിക ഡിലേയ് ആധിപത്യം സ്ഥാപിക്കും അതിനാൽ നിങ്ങൾ ഒരു ഗേറ്റ് വലുതാക്കിയാൽ അതിന്റെ ഡിലേയും വർദ്ധിക്കും അതിനാൽ ഗേറ്റ് വലുതാക്കുന്നതിലൂടെ ഡിലേയ് ഉയരുമോ ഇല്ലയോ എന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ അതും പരിശോധിക്കണം ഇത് ഉയർന്ന കപ്പാസിറ്റീവ് ലോഡ് ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അത് ഉയർന്ന ലോഡ് ഓടിക്കുന്നില്ലെങ്കിലും ഡിലേയ് കൂടുകയോ താഴുകയോ ചെയ്യാം മറ്റൊരു കാര്യം നിങ്ങൾ ഗേറ്റിന്റെ വലുപ്പം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് മുമ്പത്തെ ഘട്ടത്തിന്റെ ഡിലേയ് യും ബാധിച്ചേക്കാം നിങ്ങൾ കാണുന്നതിനാൽ നമുക്ക് ഈ ഡയഗ്രാമിലേക്ക് വീണ്ടും വരാം ഞാൻ ഈ ഗേറ്റ് വലുതാക്കുന്നുവെന്നും മുമ്പത്തെ ഘട്ടത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഗേറ്റുകളുണ്ടെങ്കിൽ ഇത് നയിക്കുന്നുവെന്നും കരുതുക അതിനാൽ ഇതും ഒരു കപ്പാസിറ്റൻസിനെ അഭിമുഖീകരിക്കും അതിനാൽ ഞാൻ ഈ ഗേറ്റ് വലുതാക്കിയാൽ കപ്പാസിറ്റൻസിന്റെ മൂല്യം പ്രദേശത്തിന് ആനുപാതികമാണ് അതിനാൽ ഞാൻ പ്രദേശം വലുതാക്കിയാൽ ഈ കപ്പാസിറ്റൻസ് മൂല്യവും വലുതായിത്തീരും അതിനാൽ ഈ ഡിലേയ് വർദ്ധിക്കും അതിനാൽ ഇത് നിങ്ങൾ ഓർക്കേണ്ട ഒന്നാണ് ഇപ്പോൾ ഈ ചാർട്ട് യഥാർത്ഥത്തിൽ ഈ A B C പോലുള്ള 3 കേസുകൾക്കുള്ള ചില പ്രതിനിധി മൂല്യങ്ങൾ കാണിക്കുന്നു അതേസമയം A ചെറുതാണെന്നും C ഏറ്റവും വലുതാണെന്നും Aയുടെ വലുപ്പം B C എന്നിവയുടെ വലുപ്പത്തേക്കാൾ കുറവാണെന്നും ഞാൻ പറഞ്ഞു ലോഡ് കപ്പാസിറ്റൻസ് ഉപയോഗിച്ച് ഗേറ്റ് ഡിലേയ് ന്റെ വ്യത്യാസം കാണിക്കുന്നു അതിനാൽ ലോഡ് കപ്പാസിറ്റൻസുകൾ ഫെംടോഫാരഡുകളിൽ ആസൂത്രണം ചെയ്യപ്പെടുകയും പിക്കോ സെക്കൻഡുകൾ ഡിലേയ് ആവുകയും ചെയ്യുന്നു അതിനാൽ ഈ ഗ്രാഫ് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ലോഡ് കപ്പാസിറ്റൻസ് 2 5 ഫെംറ്റോഫാരഡുകളാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ചെറിയ ഗേറ്റ് A കൊണ്ട് നിങ്ങളുടെ ഡിലേയ് 35 പിക്കോസെക്കൻഡുകൾ ആകും B കൊണ്ട് 30 ആകും C കൊണ്ട് 27 ആകും അതിനാൽ വിവിധ ലോഡ് കപ്പാസിറ്റൻസുകൾക്ക് ഇവയാണ് സാധാരണ വ്യതിയാനങ്ങൾ കണ്ടു അതിനാൽ ഈ മൂല്യങ്ങൾ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇവിടെ എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാഫ് കാണിക്കുന്നത് ഒരു സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് പോലെ കുറഞ്ഞ ഡിലേയ് കൈവരിക്കുന്നതിന് ഇത് ഗേറ്റിന്റെ വലുപ്പം മാറ്റുമെന്ന് റീസൈഡിങ് ട്രാൻസ്ഫോർമേഷൻ പറയുന്നു ഞാൻ ഒരു ഗേറ്റ് എടുക്കുന്നു 2 മറ്റ് ഇൻപുട്ട് NAND ഗേറ്റ് അത് മറ്റ് 3 പോയിന്റുകൾ നയിക്കുന്നു ഈ ലക്ഷ്യസ്ഥാന ഗേറ്റുകളുടെ വലുപ്പങ്ങൾ വ്യത്യസ്തമാണെന്നും അവയുടെ മൊത്തം കപ്പാസിറ്റൻസുകൾ ഇതുപോലെയാണെന്നും നമുക്ക് അനുമാനിക്കാം 1 5 ഫെംറ്റോഫറാഡുകൾ എല്ലാം 1 0 0 0 ഇപ്പോൾ ഈ കപ്പാസിറ്റൻസ് സമാന്തരമായി കിടക്കുന്നതിനാൽ കപ്പാസിറ്റൻസുകൾ സമാന്തരമാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മൊത്തം ലോഡ് കപ്പാസിറ്റൻസുകൾ കൂട്ടിച്ചേർക്കും അങ്ങനെ ആകെ 3 3 ഫെംറ്റോഫാരഡുകളായി മാറും അതിനാൽ ഞാൻ 2 ബദലുകൾ കാണിക്കുന്നു ഞാൻ vA ഉപയോഗിക്കുകയാണെങ്കിൽ 3 ഫെംറ്റോഫറാഡ് ലോഡുള്ള ഏറ്റവും ചെറിയ ഗേറ്റ് നമുക്ക് 3 ഫെംറ്റോഫറാഡ്സ് vA ലോഡുമായി തിരികെ പോകാം ഡിലേയ് 40 അതിനാൽ ഈ കേസിൽ ഗേറ്റിന്റെ ഡിലേയ് 40 പിക്കോ സെക്കൻഡ് ആയിരിക്കും എന്നാൽ ഞാൻ ഒരു വലിയ ഗേറ്റ് വിസി ഉപയോഗിക്കുക അതിനാൽ vC ഡിലേയ് 28 ആണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഈ ഗേറ്റ് 28 ആകും അതിനാൽ ഗേറ്റിന്റെ വലുപ്പം മാറ്റുന്നതിലൂടെ എനിക്ക് 40 മുതൽ 28 വരെ ഡിലേയ് മാറ്റാൻ കഴിയും അതിനാൽ ഇത് വളരെ വിശാലമാണ് ഗേറ്റിന്റെ വലുപ്പം ക്രമീകരിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വ്യത്യാസം ഇതാണ് ഞാൻ നേരത്തേ പറഞ്ഞത് അതിനാൽ അടുത്ത സാങ്കേതികതയെ ബഫറിംഗ് എന്ന് വിളിക്കുന്നു ബഫറിംഗ് എന്നാൽ എന്തെങ്കിലും നേടാൻ വേണ്ടി നമ്മൾ ഒരു സർക്യൂട്ടിൽ ബഫറുകൾ അവതരിപ്പിക്കുന്നു സർക്യൂട്ടിൽ ബഫറുകൾ അവതരിപ്പിക്കുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതിലൂടെ മെച്ചപ്പെടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഒരു ബഫർ ബഫർ സാധാരണയായി ഒരു ജോടി ഇൻവെർട്ടറുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിപരീത ബഫർ വേണമെങ്കിൽ ഒരൊറ്റ ഇൻവെർട്ടറും മതിയാകും ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബഫറുകൾ നിങ്ങളെ സഹായിക്കും ആദ്യം സർക്യൂട്ട് വേഗത്തിലാക്കുക അല്ലെങ്കിൽ ഡിലേയ് വരുത്തുന്ന ഘടകങ്ങളായി സേവിക്കുക ഇത് പിന്നീട് നമ്മൾ വീണ്ടും സംസാരിക്കേണ്ട ഒരു പോയിന്റാണ് ആശയം ഇനിപ്പറയുന്നതാണ് എനിക്ക് ഒരു സോർസുണ്ടെന്ന് കരുതുക എനിക്ക് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു വയർ ഉണ്ട് അതിനാൽ വയറിന്റെ ഈ നീളം l ആണെങ്കിൽ ഈ വയറിന്റെ ഡിലേയ് നിങ്ങൾ എൽമോർ ഡിലേയ് മോഡൽ കണക്കുകൂട്ടുകയും വിതരണം ചെയ്ത RC മോഡൽ കണക്കുകൂട്ടുകയും ചെയ്താൽ ഈ ഇന്റർകണക്ഷന്റെ ഡിലേയ് L ചതുരത്തിന് ഏകദേശം ആനുപാതികമായിരിക്കും ഇപ്പോൾ ഞാൻ ഒരു പരിഷ്ക്കരണം നടത്തുന്നുവെന്ന് പറയാം ഇതിനുപകരം ഞാൻ അതിനിടയിൽ ഒരു ബഫർ തിരുകുന്നു ഈ മൊത്തം ദൈർഘ്യം ഞാൻ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു L 2 L 2 അതിനാൽ ഡിലേയ്ചില സ്ഥിരമായ Kക്ക് തുല്യമാണ് L സ്ക്വയറിലേക്ക് ഈ സാഹചര്യത്തിൽ ആദ്യ സെഗ്മെന്റിനായി ഡിലേയ് 2 മുതൽ മുഴുവൻ സ്ക്വയറിലേക്ക് L ആകും രണ്ടാം ഭാഗത്തിന് വീണ്ടും ഡിലേയ് മുഴുവൻ ചതുരത്തിൽ നിന്ന് L ആകും അതിനാൽ നിങ്ങൾ ഇത് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ മൊത്തം ഡിലേയ് L സ്ക്വയർ 4 ഉം L സ്ക്വയർ 4 ഉം ആയിരിക്കും അത് KL സ്ക്വയർ 2 ആയിരിക്കും അതിനാൽ ഡിലേയ് പകുതിയായി അതിനാൽ ഒരു ബഫർ അവതരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഇന്റർകണക്ഷൻ ഡിലേയ് കുറയ്ക്കാനാകും ഇത് ഡിലേയ് കുറയ്ക്കുന്നതിനുള്ള വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ സാങ്കേതികതയാണ് അതിനാൽ ഇത് ആദ്യത്തേതാണ് സർക്യൂട്ട് വേഗം കൂട്ടുന്നു രണ്ടാമത്തേത് സിഗ്നൽ സമഗ്രത മെച്ചപ്പെടുത്തുന്നതിന് മോഡിഫയിങ് ട്രാന്സിഷൻ ടൈംസ് എന്നതാണ് ഇത് എന്താണ് പറയുന്നത് ഞാൻ ഒരു സർക്യൂട്ടിൽ ഒരു ബഫർ അവതരിപ്പിച്ചുവെന്ന് കരുതുക ഇൻപുട്ട് സിഗ്നൽ അത് അത്ര നല്ലതല്ല ഇത് ഇതുപോലെയായി അതിനാൽ ഒരു വൃത്തിയുള്ള പൾസിന് പകരം അതിനാൽ എനിക്ക് ഒരു ബഫറിന്റെ ഔട്ട്പുട്ട് ഉള്ളപ്പോൾ ഞാൻ ഈ സിഗ്നലിനെ ഒരു നല്ല പൾസായി പുനർനിർമ്മിക്കും ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സിഗ്നൽ പുനരുജ്ജീവനമാണ് RC ബാധിക്കുന്നതിനാൽ സിഗ്നലുകൾ ദൂരത്തേക്ക് വ്യാപിക്കുമ്പോൾ സിഗ്നലിന്റെ രൂപരേഖ തരംതാഴ്ത്തപ്പെടും സിഗ്നലിന്റെ സ്വഭാവം വികൃതമാകുന്നു അതിനാൽ ഞാൻ ഒരു ബഫർ അവതരിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും സിഗ്നൽ പുനർനിർമ്മിക്കുന്നു അത് വീണ്ടും വളരെ മനോഹരമാക്കുന്നു മൂന്നാമതായി ഔട്ട്പുട്ട് ഭാഗത്ത് കപ്പാസിറ്റീവ് ലോഡ് സംരക്ഷിക്കാൻ ഇത് സഹായിക്കും ഉദാഹരണത്തിന് എനിക്ക് ഒരു ബഫർ ഉണ്ട് ബഫറിന്റെ ഔട്ട്പുട്ട്ടിൽ ഒരു വലിയ കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട് അത് ഓടിക്കുന്ന 2 കപ്പാസിറ്റീവ് ലോഡ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരു ബഫർ അവതരിപ്പിക്കുകയും ആ ബഫറിൽ നിന്ന് ഞാൻ ഒരു ലോഡ് ഓടിക്കുകയും ഞാൻ മറ്റൊരു ബഫർ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഞാൻ മറ്റൊരു ലോഡ് ഓടിക്കുന്നു അതിനാൽ ഞാൻ 2 ബഫറുകൾക്കും യഥാർത്ഥ ഗേറ്റിനും ഇടയിൽ ലോഡ് പങ്കിടുന്നു തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അത് സംരക്ഷിക്കപ്പെട്ടു ഇത് ബഫറുകളെ നയിക്കുന്നത് കപ്പാസിറ്റീവ് ലോഡുകളല്ല അതിനാൽ ഇവ ചില വിദ്യകളാണ് ചെയ്യാവുന്ന മെച്ചപ്പെടുത്തലുകൾ ഇവയാണ് എന്നാൽ തീർച്ചയായും ചില വ്യക്തമായ പോരായ്മകളുണ്ട് ബഫർ എന്നാൽ ചില അധിക ഇലക്ട്രോണിക്സ് എന്നാണ് ഞാൻ സാധാരണയായി പറഞ്ഞതുപോലെ അവയിൽ 2 ഇൻവെർട്ടറുകൾ തിരിച്ചും പിന്നിലും 4 MOS ട്രാൻസിസ്റ്ററുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് അവർ കൂടുതൽ പ്രദേശം ഉപയോഗിക്കുന്നു അവർ കൂടുതൽ വൈദ്യുതി ഉപഭോഗം ചെയ്യും അതിനാൽ ആധുനിക EDA ടൂളുകൾ അവർ ബഫറുകൾ വളരെയധികം ഉപയോഗിക്കുന്നു കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്നത്തെ സർക്യൂട്ടുകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു പ്രകടനം നയിക്കുന്ന ഒപ്റ്റിമൈസേഷൻ ധാരാളം ഉണ്ട് ബഫർ ഉൾപ്പെടുത്തൽ വളരെ ജനപ്രിയമായ ഒരു സാങ്കേതികതയായി കണക്കാക്കപ്പെടുന്നു ആധുനിക ഡിസൈനുകളിൽ സാധാരണയായി ബഫറുകളിൽ 10 മുതൽ 20 ശതമാനം വരെ ഉൾപ്പെടാം ബഫറുകളും ചില സ്റ്റാൻഡേർഡ് സെല്ലുകളാണ് അതിനർത്ഥം എല്ലാ സ്റ്റാൻഡേർഡ് സെല്ലുകളിലും 10 മുതൽ 20 ശതമാനം വരെ ബഫറുകളാകാം ചില ഡിസൈനുകളിൽ ഇത് 40 ശതമാനം വരെയാകാം ഇത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ബഫറുകൾ വളരെ അഭികാമ്യമായ ചില സവിശേഷതകൾ നൽകുന്നതിൽ വളരെ മികച്ചതാണെങ്കിലും ചില പോരായ്മകളും ഉണ്ട് നിങ്ങൾ ഇത് ഓർക്കണം ഇത് ഒരു തുല്യതയ്ക്കായുള്ള കൈമാറ്റം പോലെയാണ് ബഫറിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം 5 ഫാനൌട്ട് ലൈനുകൾ ഓടിക്കുന്ന ഒരു 2 ഇൻപുട്ട് NAND ഗേറ്റിന്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം അതിനാൽ അവയിൽ ഓരോന്നും 1 ന്റെ കപ്പാസിറ്റൻസ് മൂല്യം അതിനാൽ മൊത്തം ലോഡ് കപ്പാസിറ്റൻസ് 5 ഫെംറ്റോഫാരഡ് ആയിരിക്കും നിങ്ങൾ vB ഈ രണ്ടാമത്തെ ഗേറ്റ് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ ഗ്രാഫിൽ ഞങ്ങൾ 3 വരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതിനാൽ ഞങ്ങൾ മുഴുവൻ കാണിച്ചിട്ടില്ല ഇവിടെ ഞാൻ കുറിച്ചു അതിനാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് vB ഉപയോഗിക്കുകയാണെങ്കിൽ 5 പിക്കോഫാരഡ് 5 ff ഫെംറ്റോഫാരഡ് ലോഡ് കപ്പാസിറ്റൻസ് ഡിലേയ് 45 പികോസെക്കൻഡിലേക്ക് വരുന്നു അതിനാൽ ഞങ്ങൾ ഈ മൂല്യം ഉപയോഗിച്ചു ഈ സാഹചര്യത്തിൽ ഗേറ്റിന്റെ ഡിലേയ് 45 പിക്കോസെക്കൻഡുകൾ ആയിരിക്കും പക്ഷേ ഒരു ബഫർ തിരുകിക്കൊണ്ട് ഞങ്ങൾ ഈ ഫാനൌട്ട് ഘടന പരിഷ്കരിക്കുന്നുവെന്ന് കരുതുക ആദ്യം രണ്ട് d e ഞങ്ങൾ അത് പോലെ സൂക്ഷിക്കുന്നു ഇത് y ഒരു ബഫർ ആണ് ബാക്കി മൂന്ന് ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ vB യും 1 2 3 എന്നിവ ഡ്രൈവ് ചെയ്യുന്നുണ്ട് Y യും 1 2 3 എന്നിവ ഡ്രൈവ് ചെയ്യുന്നു y യുടെ ഇൻപുട്ട് കപ്പാസിറ്റൻസും 1 ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഇത് 3 ഫെംറ്റോഫാരഡ് ആയിരിക്കും ഇതും 3 ഫെംറ്റോഫറാഡ് ആയിരിക്കും 3 ഫെംറ്റോഫാരഡുള്ള vB അത് എത്രയാണ് 33 33 ആണ് ഡിലേയ് അതിനാൽ ഈ ഗേറ്റിന് 33 ഉണ്ടാകും ഇതിന് വീണ്ടും 33 ഉണ്ടാകും അതിനാൽ മൊത്തം ഡിലേയ് 33 പ്ലസ് 33 ആയിരിക്കും എന്നാൽ ഈ ഗേറ്റ് ഡിലേയ് 45 ആയിരുന്നു ഇപ്പോൾ ഇത് 33 ആയി കുറഞ്ഞു അതിനാൽ ഈ d e എന്നിവ നേരത്തെ കൈമാറേണ്ട ചില ലക്ഷ്യസ്ഥാനങ്ങളാണെങ്കിൽ അവർക്ക് നേരത്തെ എത്തിച്ചേരാനുള്ള സമയം ആവശ്യമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജിസ് ഉപയോഗിക്കാം മൊത്തം ഡിലേയ് 66 ആണെങ്കിലും ചില ഔട്ട്പുട്ട്ടുകൾക്ക് 33 ന്റെ ഡിലേയ്യോടെ നിങ്ങൾക്ക് ഇത് ഓടിക്കാൻ കഴിയും തീർച്ചയായും ഇത് 45 എന്നതിനേക്കാൾ വളരെ വേഗതയുള്ളതാണ് അതിനാൽ ഞങ്ങൾ ഇതിനകം വിശദീകരിച്ചത് ഇതാണ് ഇതോടെ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലെത്തി അടുത്ത പ്രഭാഷണത്തിൽ നെറ്റ്ലിസ്റ്റുകൾ റീസ്ട്രക്ച്ചറിങ് മറ്റ് ചില ഫിസിക്കൽ ഡിസൈൻ ടെക്നിക്കുകൾ നമ്മൾ നോക്കേണ്ട വിവിധ ടെക്നിക്കുകൾ എന്നിവ നോക്കാം അതിനാൽ ഇതിനുള്ള ഡിലേയ് എങ്ങനെ ക്രമീകരിക്കാം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിലേയ് ക്രമീകരണങ്ങൾ ടൈമിംഗ് ഡ്രൈവെൻ അഡ്ജസ്റ്മെന്റ്നും സംതൃപ്തിക്കും വളരെ സാധാരണയായി ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് സ്ലാക്കുകൾ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഡിലേയ് ക്രമീകരിക്കേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും ഈ സ്ലാക്ക് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കുക ഇവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ചില വിദ്യകൾ ഇന്ന് ഞങ്ങൾ ഗേറ്റ് സൈസിങ്ങും ബഫറിംഗും കണ്ടു വീണ്ടും ബഫറിംഗ് നമുക്ക് പിന്നീട് മറ്റൊരു പശ്ചാത്തലത്തിൽ കാണാം